സിദ്ധാർത്ഥ് മാധുരി സിഇഒ നോയിൻ ഇലക്ട്രോണിക്സ് എല്ലാവർക്കും ഹായ് നമ്മൾ ഇന്ന് ചെയ്യാൻ ശ്രമിക്കുന്നത് ഡിസൈൻ തിങ്കിംഗ് എന്ന ആശയത്തിലൂടെ ഒരു കേസ് പഠനം നടത്തുകയാണ് ആശയം ഇന്നത്തെ തലമുറയിൽ സ്കൂൾ വിദ്യാർഥികൾ അഭിമുഖീകരിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ആറാം ക്ലാസ്സ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാർഥികളാണ് അടിസ്ഥാനപരമായി അവർ പൂനെയിൽ പഠിക്കുന്നവരാണ് വിദ്യാർഥികൾ അഭിമുഖീകരിക്കുന്നതായി ഞങ്ങൾ തിരിച്ചറിഞ്ഞ കുറച്ചു പ്രശ്ന പ്രസ്താവനകളിൽ ഒന്നാണു ഡിജിറ്റൽ പഠനത്തിലേക്കും ഡിജിറ്റൽ ഉള്ളടക്കത്തിലേക്ക് ഉള്ള ആക്സസ് അവർക്ക് എത്ര എളുപ്പത്തിൽ ഇലേണിങ്ലേക്ക് പ്രവേശിക്കാം അതുപോലെ ഈ പ്രായത്തിലുള്ള വിദ്യാർഥികൾക്ക് ലഭ്യമായ മറ്റേതെല്ലാം അപ്ലിക്കേഷനുകളും ഉപകരണങ്ങളും ഉണ്ട് പിന്നീട് ആയി വിദ്യാർത്ഥികൾ അവരുടെ നോട്ട് എങ്ങനെ പരീക്ഷകൾക്കായി തയ്യാറാക്കുന്നു അതായത് അവരുടെ സ്കൂൾ കുറിപ്പുകൾ അല്ലെങ്കിൽ ട്യൂഷൻ കുറിപ്പുകൾ തുടർന്ന് ഡിജിറ്റലായി ലഭ്യമായ അവരുടെ വീഡിയോ പഠന ഉള്ളടക്കങ്ങൾ ചുരുക്കിപ്പറഞ്ഞാൽ ഈ കുറിപ്പുകൾ എത്ര നന്നായി എഴുതുന്നു എന്നും ഈ ഇൻപുട്ടുകൾ ഭാവി റഫറൻസിനായി എത്രത്തോളം കാര്യക്ഷമമായി ഓർഗനൈസ് ചെയ്യുന്നുവെന്നും അറിയാൻ വേണ്ടിയാണ് അതിനാൽ ഇവയിലെ പ്രശ്നങ്ങൾ എന്തെല്ലാം ആണെന്നും ഡിസൈൻ തിങ്കിങ് എന്ന ആശയത്തെ ഉപയോഗിച്ച് ഒരു നിഗമനത്തിലെത്താൻ പിന്നീട് ഒരു ഉൽപ്പന്നമോ സേവനമോ വഴി ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനും കൂടിയാണ് പ്രൊഫസർ ശരി നിങ്ങൾ എടുത്തിരിക്കുന്നത് വളരെ ഉത്തരവാദിത്വമുള്ള ഒരു വിഷയം ആണെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ എടുത്ത വിഷയം എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്നു ശ്രീ സിദ്ധാർഥ് ഈ പ്രത്യേക പ്രായപരിധിയിലെ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി താങ്കൾ കൊണ്ടുവന്ന ആശയം പ്രശംസ അർഹിക്കുന്നു ഇന്ത്യയിൽ പൂനെ പോലൊരു നഗരത്തിൽ വീട്ടിൽ ഇവർക്ക് ഒരുപാട് ഗാഡ്ജെറ്റുകൾ ലഭ്യമാണ് സത്യത്തിൽ അവരുടെ അച്ഛനും അമ്മയെക്കാളും വളരെ മികച്ച രീതിയിൽ ഇവ ഉപയോഗിക്കാൻ ഇവർക്കറിയാം എന്നാൽ സ്കൂളിൽ അവർ അഭിമുഖീകരിക്കുന്നത് അവരുടെ എഴുത്ത് നന്നാവണം എന്നും അവരുടെ കൈയ്യക്ഷരം നല്ലതല്ലെങ്കിൽ അവർക്ക് പിഴ ചുമത്തപ്പെടും അതിനുപുറമേ പാഠപുസ്തകങ്ങൾ നോട്ട്ബുക്കുകൾ പോലുള്ളവ അവർക്ക് ചുമക്കണം അതിനാൽ ഈ കേസ് പഠനത്തിനായി ഈ വിഷയം കൊണ്ടുവന്ന നോയിന്റെമുഴുവൻ ടീമിനെയും ഞാൻ ശരിക്കും അഭിനന്ദിക്കുന്നു ഈ വിഷയം ഞാൻ ശരിക്കും ഇഷ്ടപ്പെടുന്നു അതിനാൽ എൻറെ ചോദ്യം ഡിസൈൻ തിങ്കിംഗ് തന്നെയാണ് എൻറെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി നിങ്ങൾ ഓർക്കുന്നു ഉണ്ടെങ്കിൽ അതിൽ ഒരു ചിട്ടയായ രീതി ശാസ്ത്രപരമായ സമീപനത്തിലൂടെയാണു കടന്നുപോകുന്നത് അതിനാൽ അനുഭാവപൂർണമായ വിശകലനം ചെയ്യുക പരിഹരിക്കുക പരീക്ഷിക്കുക അങ്ങനെയാണ് കടന്നു പോകുന്ന വഴികൾ അതിനാൽ മുഴുവൻ ടീമിലെ അംഗങ്ങളെയും ഞാൻ ഇതിലേക്കു ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നു ഇതിലെ ടാർഗെറ്റ് സെഗ്മെന്റിൽ അല്ല നിങ്ങൾ ഇപ്പോൾ കാരണം നിങ്ങൾ ഇപ്പോൾ കുട്ടികളല്ല എന്നാൽ നിങ്ങൾ കുട്ടികൾ ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് എങ്ങനെയാണെന്ന് എന്നതിൽ എനിക്ക് ജിജ്ഞാസ ഉണ്ട് ഇതിന് ഒരു പരിഹാരം കണ്ടെത്തു നിങ്ങളെക്കൊണ്ട് അത് സാധിക്കുമോ സുപ്രതിവ് ദാസ് സി ടി ഓ നോയിൻ ഇലക്ട്രോണിക്സ് അതിനാൽ ഇതിനുള്ള ഉത്തരം എന്തെന്നാൽ കുട്ടികളുടെ നോട്ട് എഴുതുന്ന രീതി അതിലെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം ഇതുവരെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കണ്ടുവരുന്ന പ്രശ്നം എഴുതാനായി ഓരോ നോട്ടുബുക്കുകൾ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് അവയ്ക്ക് സ്ഥലം വേണം ഭാരവും കൂടുതലാണ് അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വഹിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാകുന്നു വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ എളുപ്പത്തിലാക്കാൻ വേണ്ടിയാണ് ഒരുപാട് പുസ്തകങ്ങൾ കൊണ്ടുനടക്കുന്നത് ഒരു സ്കൂൾ വിദ്യാർത്ഥിയ്ക്ക് ദൈനംദിന ജീവിതത്തിൽ നിരവധി വിഷയങ്ങളെപ്പറ്റി പഠിക്കാനുണ്ട് ഇതിനെല്ലാം കൂടി ഒരു പുസ്തകം ആണ് ഉള്ളതെങ്കിൽ ഒരു വിഷയത്തെ പറ്റി ചെറിയ കുറിപ്പ് എവിടെയെങ്കിലും ആ പുസ്തകത്തിൽ എഴുതിയാൽ പിന്നെ അത് കണ്ടെത്താൻ വളരെ പ്രയാസമാണ് സങ്കൽപ്പിക്കുക ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ നോട്ടുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ പുസ്തകങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരും അത് മാനേജ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ് അല്പം അല്ല വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ഇത് തിരയാനും വീണ്ടെടുക്കാനും നിങ്ങളുടെ കുറിപ്പുകൾ മറ്റൊരാൾക്ക് നൽകാനും പ്രയാസമാണ് എന്നിരുന്നാലും അറിവുകൾ കൈമാറാൻ ഈ നോട്ട്ബുക്കുകൾ വളരെ നല്ലതാണ് ഏത് നോട്ട് എവിടെ സൂക്ഷിച്ചു എന്ന് നിങ്ങൾക്കറിയില്ല എന്നാൽ നിങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്തണം നിങ്ങൾ സുപ്രദീപ് ചോദിക്കൂ നോട്ട് താങ്കളുടെ കയ്യിലുണ്ടോ അപ്പോൾ ഞാൻ ഉണ്ട് എന്നു പറയും എന്നാൽ എനിക്ക് ഓർമിക്കാൻ കഴിയുന്നില്ല ആ നോട്ട് എവിടെ സൂക്ഷിച്ചു എന്ന് അറിയില്ല അതിനാൽ എനിക്ക് ഈ പുസ്തകങ്ങൾ വളരെ എളുപ്പത്തിൽ കണ്ടെത്താനും അത് നിങ്ങൾക്ക് നൽകാനും കഴിയുന്ന ഒരു അവസരം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ അത് നിങ്ങൾക്കു എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമാകും നിതിൻ കുര്യൻ സിഒഒ നോയിൻ ഇലക്ട്രോണിക്സ് സിദ്ധാർത്ഥ് സൂചിപ്പിക്കുന്നതുപോലെ ഇപ്പോൾ ധാരാളം ഡിജിറ്റൽ പഠന സൌകര്യങ്ങൾ ലഭ്യമാണ് എന്നാൽ നിലവിലെ സ്കൂളുകളിൽ സൌകര്യ കുറവുമൂലം ഇത്തരം പര്യവേഷണങ്ങൾ നടത്തുവാൻ വിദ്യാർഥികളെ അനുവദിക്കുന്നില്ല അതിനാൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തുവാൻ ഡിജിറ്റൽ പാഠപുസ്തകങ്ങളും ഡിജിറ്റൽ പഠന അപ്ലിക്കേഷനുകളും ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാറ്റം ക്ലാസ് റൂം ചട്ടക്കൂടിനുള്ളിൽ നമ്മുടെ സേവനം കൊണ്ട് വരുത്താൻ സാധിക്കും പ്രൊഫസർ നിങ്ങളുടെ സ്വന്തം അനുഭവം ആയിരുന്നോ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരാൻ നിങ്ങൾ ഓർക്കുന്നു എങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പുസ്തകത്തിൽ ഒരു കാര്യം നോക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ അവ തിരഞ്ഞ് ബുദ്ധിമുട്ടി പിന്നീട് അടുത്തിരിക്കുന്ന ആളുടെ പുസ്തകത്തിൽ എഴുതിയത് നോക്കി ഇരിക്കുകയാണ് ഉണ്ടായത് ഇതാണോ നിങ്ങളുടെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ ഉണ്ടായ കാരണം അതോ മറ്റെന്തെങ്കിലും ആയിരുന്നോ നിതിൻ കുര്യൻ സിഒഒ നോയിൻ ഇലക്ട്രോണിക്സ് ശരിയാണ് ഞങ്ങൾ നേരിടുന്ന വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഇത് പക്ഷേ ഇത് ഞങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നം മാത്രമല്ല മിക്കവാറും എല്ലാ വിദ്യാർത്ഥികളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് എഴുതിയത് കണ്ടെത്തുന്നതിലും അതുപോലെ പാഠപുസ്തകത്തിലെ ദൌർലഭ്യം മൂലം ലൈബ്രറികളിൽ പോകേണ്ടി വരുന്നവർ അനുഭവിക്കുന്ന പ്രശ്നമാണിത് അതിനാൽ ഇവയെല്ലാം ഡിജിറ്റലാകുന്നതുവഴി പഠന രീതികളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തും അത് നമ്മുടെ പഴയകാല പഠന രീതികളിൽ നിന്ന് വേറിട്ട് നിൽക്കും പ്രൊഫസർ ശരി സിദ്ധാർത്ഥനോട് ആണ് ചോദ്യം നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവവും ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് കാണാനാകുന്നു നിങ്ങൾ തിരഞ്ഞെടുത്ത സെഗ്മെന്റ് വളരെ പ്രത്യേകതയുള്ളതാണ് എന്നും അതിൻറെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ സെഗ്മെന്റ് എടുത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ നാല് പേർക്ക് ഇതിൽ ഇത്ര താല്പര്യം തോന്നുന്നത് സിദ്ധാർഥ് മാധുരി സിഇഒ നിയോൺ ഇലക്ട്രോണിക്സ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാർ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥിയ്ക്ക് എഴുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് അത് കാര്യക്ഷമമായി പഠിക്കാൻ അവനെ സഹായിക്കുന്നു അത് ഞങ്ങളുടെ സ്കൂൾ കോളേജ് ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ് അതിനാൽ കൂടുതൽ എഴുതുന്നത് നമ്മുടെ മെമ്മറി വർധിപ്പിക്കുന്നു എന്നത് നമ്മൾ എല്ലാവരും സ്കൂൾ കാലഘട്ടത്തിൽ തൊട്ട് മനസ്സിലാക്കി വരുന്ന കാര്യമാണ് ആശയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഗ്രാഫിക്കൽ ഡയഗ്രാം എന്നിവ നിരന്തരമായി പരിശീലിക്കുന്നത് കൂടുതൽകാലം ഓർമ്മിക്കാൻ സഹായിക്കുന്നു അതിനാൽ ഈ പോയിൻറ്കളും ഘടകങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഈ ഉൽപ്പന്നം നിലവിൽ വന്നാൽ വിദ്യാർഥികൾക്ക് ഗുണം ചെയ്യും നിലവിൽ വ്യത്യസ്ത വിഷയങ്ങൾക്ക് വ്യത്യസ്ത പാഠപുസ്തകങ്ങൾ കൈവശം വേണം അതിനാൽ ജീവിതത്തെക്കുറിച്ചും വിഷയങ്ങളെയും കുറിച്ച് പഠിച്ചു വരുന്ന ഒരു ചെറിയ കുട്ടിയ്ക്ക് ഇതെല്ലാം ദുഷ്കരമാണ് അപ്പോൾ ഇത്തരം തടിച്ച കണക്ക് പുസ്തകവും സയൻസ് പുസ്തകവും കാണുമ്പോൾ വിദ്യാർഥികൾക്ക് ഒരു ചീത്ത മനോഭാവം ഉണ്ടാക്കുന്നു ഈ ഘടകങ്ങളെല്ലാം കണക്കിലെടുത്ത് ഈ ഉൽപ്പന്നത്തിൻറെ ഗുണം എടുത്തുകാണിക്കുന്നു ഇതുവഴി ഓരോ വിഷയത്തിനും വ്യത്യസ്തമായ പാഠപുസ്തകങ്ങളും നോട്ടുബുക്കുകളും കൈവശം വെക്കേണ്ടതില്ല വിദ്യാർഥികൾക്ക് സ്കൂൾ ട്യൂഷൻ വീട്ടിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവ ഇതെല്ലാം ക്രമാതീതമായി സൂക്ഷിക്കാൻ സഹായിക്കും അവർ എഴുതുന്നതെന്തും ഒരു വ്യക്തിഗത ഡിജിറ്റൽ സ്ഥലത്ത് ഓർഗനൈസ് ചെയ്യാനും സജീവമായി എഴുതാനും സഹായിക്കും ഇത് കൊച്ചു കുട്ടികൾക്ക് ഒരു നല്ല പഠന പ്രക്രിയയാണ് കൂടാതെ നോട്ട്ബുക്കുകൾ കടലാസുകൾ എന്നിവ വളരെയധികം ഉപയോഗിക്കുന്നു എന്ന വസ്തുത കണക്കിലെടുത്ത് വരുംകാലം ഇതിൻറെ ഉപയോഗം കുറയ്ക്കാൻ താല്പര്യപ്പെടുന്നു പക്ഷേ പകരം വയ്ക്കാൻ ആവില്ല നോട്ട് പുസ്തകവും പാഠപുസ്തകവും ഒന്നിച്ചു കൊണ്ടുവരിക എന്ന ആശയത്തിലുള്ള വിടവ് നികത്താൻ ഇതിനെ കൊണ്ട് സാധിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു അതുവഴി എഴുത്തും വായനയും വളരെ മികച്ച രീതിയിൽ തുടരാൻ കഴിയും പ്രൊഫസർ ശ്യാം എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യമുണ്ട് നിങ്ങളാണ് ഇതിൻറെ മാർക്കറ്റിംഗ് വശം കൈകാര്യം ചെയ്യുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റ് പൾസ് എന്താണ് എനിക്കറിയാം എഴുതു എന്നത് ഒരു നശിച്ചുകൊണ്ടിരിക്കുന്ന കലയാണ് ഇപ്പോൾ കാണുന്ന ആളുകൾ എഴുതുന്നത് നിലവിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വഴിയാണ് സ്വന്തം കൈയ്യക്ഷരം കൊണ്ടുള്ള എഴുത്ത് കാണാൻ തന്നെയില്ല മാത്രമല്ല എഴുതേണ്ട രീതി ഇങ്ങനെയാണെന്നു കൂടി അവർ മറന്നിരിക്കുന്നു നിങ്ങൾ ആളുകളോട് വളരെ നല്ല സമീപനം ആണെന്ന് അറിയാം ഇന്നത്തെ ആളുകളുടെ എഴുത്തിൻറെ രീതിയോടുള്ള സമീപനം എങ്ങനെയാണ് ശ്യാം പോൾ എം മാർക്കറ്റിംഗ് നോയിൻ ഇലക്ട്രോണിക്സ് ഇപ്പോൾ ആളുകൾക്ക് എഴുതുന്നതിനേക്കാൾ കൂടുതൽ ടൈപ്പ് ചെയ്യാൻ താൽപര്യപ്പെടുന്നത് പോലെയുള്ള ഒരു മാറ്റം ഞാൻ കാണുന്നുണ്ട് ഇത് ചില സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും നിരീക്ഷിച്ചതിൽ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഒരു മാറ്റം ഉണ്ടെങ്കിലും കീബോർഡിൻറെ പ്രവേശനം എല്ലാം നിങ്ങൾക്കറിയാമല്ലോ കോർപ്പറേറ്റ് ഓഫീസുകൾ സ്ഥാപനങ്ങൾ സ്കൂളുകൾ എല്ലായിടത്തും എഴുത്ത് അനിവാര്യമാണ് സിദ്ധാർത്ഥ് മാധുരി സിഇഒ നോയിൻ ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ പരിവർത്തനത്തിന്ൻറെ ഭാഗമായി കീബോർഡ് കൊണ്ടുള്ള ടൈപ്പിംഗ് സമ്പ്രദായം വന്നു എഴുത്തിൻറെ മുഴുവൻ പ്രവർത്തനങ്ങളും ഇപ്പോൾ ടൈപ്പിംഗിലേക്ക് മാറ്റിയിരിക്കുന്നു അവയെല്ലാം ഇപ്പോൾ ഡിജിറ്റൽ കോപ്പി അല്ലെങ്കിൽ ഡിജിറ്റൽ സേവ് ചെയ്ത കണ്ടൻറ് ആയി മാറിയിരിക്കുന്നു അതിനാൽ നമ്മൾ ടൈപ്പിംഗ്നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക വാക്ക് ഒരു പ്രത്യേക ചിന്ത ഒരു പ്രത്യേക വാചകം ടൈപ്പ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പ്രിഫിക്സ് അവസ്ഥയിലാണ് ഇപ്പോൾ എന്നാൽ എഴുത്തിൻറെ രീതിയിൽ നമ്മള് ചിന്തയിലൂടെ എഴുതി പോകും നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നമ്മൾ എഴുതി കൊണ്ടിരിക്കും ഞാൻ എഴുതുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതുന്നതിനെ കൂട്ടത്തിൽ ചില ഫ്ളോചാർട്ടുകൾ വരച്ച് ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതുവഴി ആ മൊത്തം പ്രഭാഷണവും എഴുതി ഉണ്ടാക്കുന്നതിനു പകരം ഈ എളുപ്പ മാർഗത്തിൽ അത് മൊത്തത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു അതിനാൽ എഴുത്ത് എന്നത് ഒരു പഠന രീതി കൂടിയാണ് അതുവഴി എഴുതിയിരിക്കുന്ന ചെറിയ കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിക്കും പക്ഷേ ടൈപ്പിംഗ് ചെയ്യുമ്പോൾ അത് സാധിക്കുകയില്ല ഒരു ലാപ്ടോപ്പ് എൻറെ കയ്യിൽ ക്ലാസ് മുറിയിൽ ഉണ്ടെങ്കിൽ പ്രൊഫസർ പറയുന്നത് അങ്ങനെ എഴുതി എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഒരു പേനയും പേപ്പറും ആണ് ഉള്ളതെങ്കിൽ ഇതിൽ വേണ്ടപ്പെട്ട വാചകങ്ങൾ മാത്രം എഴുതി ചില ഡയഗ്രാം ഉപയോഗിച്ച് അവയെ ബന്ധിപ്പിക്കാൻ സാധിക്കും തുടർന്ന് എൻറെ ചിന്ത പ്രക്രിയ വഴി ആ കീവേഡുകൾ ഉൾപ്പെടുത്തി എൻറെ സ്വന്തം പഠന ലേഖനം അല്ലെങ്കിൽ ബ്ലോഗോ ഉണ്ടാക്കാൻ സാധിക്കും അതിനാൽ ഡിജിറ്റൽ ഇൻപുട്ട് കാരണം നിലവിൽ നമുക്ക് നഷ്ടപ്പെടുന്നവ ഇവയാണ് നിതിൻ കുര്യൻ സിഒഒനോയിൻ ഇലക്ട്രോണിക്സ് സർ ഈ കീബോർഡിൻറെ പ്രവേശന രീതി ഒന്ന്കണക്കാക്കേണ്ടതുണ്ട് നമ്മൾ കീബോർഡ് വഴി എഴുതുന്നത് എല്ലാം ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിക്കുന്നു ഞാൻ എഴുതുന്നത് എല്ലാം എളുപ്പത്തിൽ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു മാധ്യമം ഉണ്ടെങ്കിൽ ഇന്നത്തെ സാങ്കേതികവിദ്യയുടെ വളർച്ച മൂലം അതൊരു മാനദണ്ഡമായി മാറിയിരിക്കുകയാണ് അതിപ്പോൾ ഡെസ്ക്ടോപ്പ് വഴിയോ ലാപ്ടോപ്പ് വഴിയോ ആയിക്കോട്ടെ എഴുത്ത് എന്നത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ് നമ്മൾ കുട്ടികളായി ഇരുന്ന കാലം തൊട്ട് നമ്മൾ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ശീലിച്ചു വന്ന ഒരു കാര്യമാണിത് എന്നാൽ ടൈപ്പിംഗ് എന്നത് ഒരു ബിരുദാനന്തര ബിരുദം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴോ അത്യാവശ്യ ഘടകമാണ് അതിനാൽ ആളുകൾ എഴുതുന്നത് എളുപ്പത്തിൽ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു സാങ്കേതികവിദ്യ ഉണ്ടെങ്കിൽ കീബോർഡ് ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പ് എന്നിവ പരിണമിക്കുകയും ചെയ്തിരിക്കുകയാണ് അതിനാൽ ഇന്നത്തെ രീതി വ്യത്യസ്തമായിരിക്കുകയാണ് പ്രൊഫസർ ഒരു ടെക് ചോദ്യമാണ് സുപ്ര അവൻ ഈ ടീമിലെ എനിക്കറിയാവുന്ന ഒരു സാങ്കേതിക വിദഗ്ധനാണ് എനിക്ക് അടുത്തിടെ ഒരു ഡിജിറ്റൽ ഗാഡ്ജെറ്റ് വഴി ഒപ്പിടേണ്ടിവന്നു കുറച്ചു ദിവസങ്ങൾക്കുശേഷം ആ ഒപ്പ് ഞാനൊന്നു നോക്കി അത് ഞാൻ ഇട്ടതാണോ എന്ന് വരെ സംശയം തോന്നി അതിനാൽ ആദ്യമേ എനിക്ക് ആ സ്ക്രീനിൽ വരയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമായില്ല മറിച്ച് പേനയും പേപ്പറും ആണെങ്കിൽ വളരെ നന്നായിരുന്നു നിലവിലെ ആ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതിനൊരു പരിഹാരം എന്താണ് സുപ്രതിവ് ദാസ് സിടിഒ നോയിൻ ഇലക്ട്രോണിക്സ് നിങ്ങൾ പറഞ്ഞതുപോലെ എഴുതുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം അല്ലേ പ്രൊഫസർ ശരിയാണ് സുപ്രതിവ് ദാസ് സിടിഒ നോയിൻ ഇലക്ട്രോണിക്സ് നിലവിൽ ഡിജിറ്റൽ ടാബ്ലറ്റുകൾ വിപണിയിൽ ഒരുപാടുണ്ട് ഇവയൊന്നും തന്നെ എഴുതാൻ ആയിട്ടുള്ളതല്ല എന്നാൽ ഈ മീഡിയം ഈ ഡിജിറ്റൽ ഉപകരണം നിങ്ങൾ ഒപ്പിട്ട ഉപകരണം ഏതോ ആയിക്കോട്ടെ അതിൽ നിങ്ങടെ ഒപ്പ് ശരിയായി പതിഞ്ഞില്ല കാരണം അത് പ്രോസസ് ചെയ്തതിൻറെ കുഴപ്പമാണ് എന്നാൽ പേപ്പറിൽ നിങ്ങളൊരു ഒപ്പിടുമ്പോൾ അത് ഭാവിയിലും മാറ്റമില്ലാതെ തുടരും നമ്മുടെ ഉപകരണത്തിൽ നിങ്ങളുടെ സിഗ്നേച്ചർ സംഭരിക്കാൻ കഴിയുന്നതാണ് അതൊരിക്കലും മാറില്ല എന്നാൽ നിങ്ങൾ ഉപയോഗിച്ച ഡിലീറ്റ് ഉപകരണത്തിൽ നിങ്ങൾക്ക് സംതൃപ്തി വന്നില്ല ഇത് എഴുതാനായി ഉള്ള ഒരു ഉപകരണമല്ല ഇതിൽ നോട്ടുകൾ സൂക്ഷിച്ചുവയ്ക്കാം എന്നാൽ വിദ്യാർഥികൾ ഇതിൽ കുറച്ചു വാചകം എഴുതിയതിനു ശേഷം അവർക്ക് മിക്കവാറും ഇതിൽ തുടർന്നെഴുതാൻ സാധിക്കില്ല അല്ലെങ്കിൽ മനസ്സ് വരില്ല ഇത് ഒരു വിദ്യാർത്ഥിക്ക് എഴുതാനുള്ള നല്ല മാധ്യമം ആയി കണക്കാക്കാൻ കഴിയാത്തതിന് നിരവധി കാരണങ്ങളുണ്ട് ഒന്നാമതായി അതിനു പേപ്പർ പോലെ വിശ്വസ്തത ഇല്ല രണ്ടാമത്തെ കാര്യം ഇപ്പോൾ നമ്മൾ കാണുന്ന ഡിജിറ്റൽ ടാബ്ലറ്റുകൾ അതിൽ അനിയന്ത്രിതമായ നിരവധി ഉള്ളടക്കങ്ങൾ ഉണ്ട് നിങ്ങളുടെ താൽപര്യത്തിൽ ടാബ്ലെറ്റിന് ആ നിലയിലേക്ക് പരിമിതപ്പെടുത്താൻ കഴിയില്ല അത് ഉപയോഗിക്കുന്ന ഉപഭോക്താവിന് ടാബ്ലെറ്റ് ഉപയോഗിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെടും ആ ടാബ്ലെറ്റിന്റെ പ്രധാന ഉപയോഗത്തിലേക്ക് അതിന് പരിമിതപ്പെടുത്തുകയാണെങ്കിൽ ഇതുവഴി എഴുതാനുള്ള താല്പര്യം ആളുകൾക്ക് നഷ്ടപ്പെടും പകരം ആളുകളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു ഉപകരണമാണ് നൽകേണ്ടത് നമ്മുടെ ഉദാഹരണത്തിൽ ഈ ടാബ്ലെറ്റ് ഒരു നോട്ട്ബുക്കിന്റെ ഉപയോഗമാണ് ഉണ്ടാവേണ്ടത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ എഴുത്തുകളെ ഡിജിറ്റൽ ഫോർമാറ്റിൽ സൂക്ഷിക്കാൻ സഹായിക്കുന്നു ഇന്നുവരെ നമ്മൾ കാണുന്ന മികച്ച ഉപകരണങ്ങൾ പോലും ഡിജിറ്റൽ രൂപത്തിൽ ആണ് എഴുത്തുകളെ സൂക്ഷിക്കുന്നത് എന്നാൽ ഇവയൊന്നും തന്നെ പേന കൊണ്ട് എഴുതുന്ന അതേ അനുഭവം നൽകില്ല പ്രൊഫസർ എനിക്ക് മനസ്സിലാകുന്നത് എഴുത്ത് അതിൻറെ ശുദ്ധമായ രൂപത്തിൽ ആയിരിക്കണം രണ്ടാംസ്ഥാനമാണ് മറ്റുള്ളവയ്ക്ക് എനിക്ക് നിങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കുന്നു സുപ്രതിവ് ദാസ് സിടിഒ നോയിൻ ഇലക്ട്രോണിക്സ് എന്തുകൊണ്ടാണ് കീബോർഡ് ഉപയോഗിക്കുന്നത് എന്ന് നിധിൻ ചോദിച്ചു നമുക്ക് വേണ്ടത് എല്ലാം എഴുതി ഡിജിറ്റലൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഉപകരണമാണ് കീബോർഡ് അതിനാലാണ് ഇത് നിലവിൽ വന്നത് ഒരു ലൈൻ വരയ്ക്കാൻ ഇതിനെ കൊണ്ട് ഉപയോഗമില്ല അതിനായി മൌസ് ഉണ്ട് ഇവയെല്ലാം ഡിജിറ്റൽ ഉപകരണമാണ് അതിലൂടെ നമുക്ക് കൈയെഴുത്ത് ഒഴിവാക്കാനാകും എന്നിരുന്നാലും കൈയ്യെഴുത്തു വളരെ നല്ലതാണ് അതിനാൽ ഇപ്പോൾ വിപണിയിൽ ഉള്ള ഉൽപ്പന്നങ്ങൾ ഇവയെല്ലാം നൽകുന്നില്ല പ്രൊഫസർ ഇതു തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് വിവരങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് കാര്യക്ഷമത കീബോർഡിന് വളരെ ഉയർന്നതാണെന്ന് അതിനാൽ എനിക്ക് ധാരാളം ടൈപ്പ് ചെയ്യാൻ കഴിയും പക്ഷെ യഥാർത്ഥത്തിൽ കയ്യെഴുത്ത് ആകുമ്പോൾ അത് വളരെ മന്ദഗതിയിലാണ് അതിനാൽ നിങ്ങളുടെ ടാർഗെറ്റ് പ്രേക്ഷകർ ആയ ഈ കുട്ടികൾ നഷ്ടപ്പെടും എന്ന് നിങ്ങള്ക്ക് തോന്നുന്നുണ്ടോ കാരണം ഇപ്പോൾ വിവരം ഓവർലോഡ് ആയതിനെ കുറിച്ചും അവർ സംസാരിക്കുന്നു ഇവയെല്ലാം കണക്കിലെടുത്തു എത്രയും വേഗം ഒരു തീരുമാനമെടുത്തു കൂടെ സിദ്ധാർത്ഥ് മാധുരി സിഇഒ നോയിൻ ഇലക്ട്രോണിക്സ് താങ്കൾ പറഞ്ഞതുപോലെ കീബോർഡ് വേഗതയിൽ കാര്യങ്ങൾ എഴുതാൻ സഹായിക്കുന്ന ഉപകരണമാണ് ഇത് പൂർണ്ണമായും അംഗീകരിക്കുന്നു സർ മറ്റൊരു രൂപത്തിൽ തയ്യാറാക്കപ്പെട്ട ഒരു ഡാറ്റ എളുപ്പത്തിൽ ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റാൻ കീബോർഡ് വളരെ നല്ലതാണ് അതേസമയം പുതിയതായി എന്തെങ്കിലും ചിന്തിച്ച് ആലോചിച്ച് എഴുതുമ്പോൾ കീബോർഡ് നല്ലൊരു ഉപായം അല്ല അതിപ്പോൾ ഒരു കവിതയായാലും ലേഖനം ആയാലും ഇവിടെയും അവിടെയും ആയ വാക്കുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നു പുതിയ വാക്യങ്ങൾ പരീക്ഷിക്കുന്നു ഡയഗ്രാം വരയ്ക്കുന്നു ഇവയൊന്നും കാര്യക്ഷമമായി ഒരു കീബോർഡിൽ പിന്തുണയ്ക്കുന്നില്ല നമ്മൾ ഇതിനെ പഠനത്തിന് ആയിട്ടുള്ള ഒന്നാം നമ്പർ ഉപകരണമായി കരുതുന്നു ഇതുവഴി വിദ്യാർത്ഥിയുടെ സർഗ്ഗാത്മകത വർധിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ വളരെ തുച്ഛമായ ഫലമേ ലഭിക്കൂ അതിനാൽ കീ ബോർഡിൻറെ പ്രവർത്തനം വളരെ നേരെയാണ് വളച്ചുകെട്ടില്ലാതെ ഒരു ചോദ്യം ചോദിക്കുന്നത് പോലെയാണ് കീ ബോർഡിൻറെ ഉപയോഗം അതിൽ ഇങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് വഴി സൂക്ഷിച്ചിട്ടുള്ള വിവരങ്ങളെ അത് നൽകു എന്നാൽ നിങ്ങൾ കൈയെഴുത്തു മാർഗ്ഗം ആണെങ്കിൽ ആശയം എന്താണ് ആശയം ഉദ്ദേശിച്ച നിങ്ങൾ എന്താണ് മനസിലാക്കിയത് എന്നിവയെല്ലാം വ്യക്തമായി എഴുതാം അത് ഞാൻ എഴുത്തിൻറെ കാര്യത്തിൽ കൈയെഴുത്ത് വളരെ മികച്ചതാണ് മുൻകൂട്ടി തയ്യാറാക്കിയ വിവരങ്ങൾ എഴുതാൻ കീബോർഡ് ആണ് നല്ലത് നിതിൻ കുര്യൻ സിഒഒനോയിൻ ഇലക്ട്രോണിക്സ് കീബോർഡിൽ നിങ്ങൾ സൂചിപ്പിച്ച വേഗത പോരായ്മ ഒരു ക്ലാസ് മുറിയിൽ സാധാരണ ഉപയോഗ സമയത്ത് എങ്ങനെ ആയിരിക്കും എന്ന് ഒരു ഉദാഹരണം പറയാം ഒരു കീ ബോർഡിൽ നിങ്ങൾക്ക് നല്ല വേഗതയോടെ കൂടി ടൈപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു വിചാരിക്കുക അപ്പോൾ ഒരു പ്രൊഫസർ പറയുന്നതെല്ലാം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും നേരത്തെ സിദ്ധാർഥ് സൂചിപ്പിച്ചതുപോലെ ഓരോ വാക്കും എഴുതാൻ സാധിക്കും കുറച്ചു കാലങ്ങൾക്കു ശേഷം അത് നിങ്ങൾ പോലും അറിയാത്ത ഒരു ശീലമായി മാറുന്നു എന്നാൽ കൈയ്യെഴുത്ത് സ്വതവേ പതുക്കെയാണ് അതിൻറെ കൂടെ പ്രൊഫസർ പറയുന്നത് ശ്രദ്ധിക്കണം മനസ്സിലാക്കണം നിങ്ങളുടേതായ രീതിയിൽ എഴുതണം അതിനാലാണ് ഞങ്ങളിത് വിദ്യാഭ്യാസ പഠന മേഖലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പ്രൊഫസർ ശരി സിദ്ധാർത്ഥ് മാധുരി സിഇഒ നോയിൻ ഇലക്ട്രോണിക്സ് അതിനാൽ വിവരങ്ങൾ വെർച്വൽ സ്പേസിലേക്ക് പോകാൻ തയ്യാറായ നിമിഷം ഈ ഉൽപ്പന്നം ഒരു കീബോർഡ്നേക്കാൾ കൂടുതൽ അർത്ഥമാക്കുന്നു പക്ഷേ വിവരങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം ആണെങ്കിൽ അതിനെ ക്ലൌഡ് സ്റ്റോറേജ്ലേക്ക് മാറ്റാൻ കീബോർഡ് ഉപയോഗിക്കാം അതിനാൽ സർഗ്ഗാത്മകത പഠനം കൂടുതൽ ഫലപ്രദമായി നിർവഹിക്കാൻ ആണ് ഞങ്ങളുടെ ലക്ഷ്യം പ്രൊഫസർ നിതിൻ പറഞ്ഞ വിവരം മാർക്കറ്റ് ട്വെയിന്റെ ഒരു വാചകം എന്നെ ഓർമ്മപ്പെടുത്തി " ഒരു ക്ലാസ് റൂം എന്നത് അധ്യാപകരുടെ നോട്ട് ബുക്കിൽ നിന്ന് വിദ്യാർഥികളുടെ നോട്ട് ബുക്കിലേക്ക് വിവരങ്ങൾ കൈമാറാൻ ഉള്ളതല്ല പകരം അവരുടെ ചിന്തകളാണ് കൈമാറേണ്ടത്" ഞാൻ ഒരു പഴയ കാല വിദ്യാർത്ഥിയാണ് എഴുത്തുകൾ അത് കൈകൊണ്ട് എഴുതിയത് നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ കരുതുന്നു പ്രത്യേകിച്ചും നിങ്ങൾ പുതിയ കാര്യം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിങ്ങളുടെ പഠന വേഗതയും പഠന പ്രക്രിയയും വർധിപ്പിക്കുന്നു കൈ കൊണ്ട് എഴുതുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ ആണ് പതിയുന്നത് അതിനാൽ തീർച്ചയായും ഞാൻ നിങ്ങളുടെ ആ കാര്യത്തിൽ യോജിക്കുന്നു നിങ്ങൾ ആസൂത്രിതമായി ചെയ്ത ഏതെങ്കിലും പഠനമോ മറ്റോ ഉണ്ടോ കാരണം ഡിസൈൻ തിങ്കിങ് അതിൻറെ ഒരു ഭാഗമാണ് നിങ്ങൾ പ്രേക്ഷകരുടെ അനുഭവം കണക്കിലെടുക്കണം അതിനാൽ ഇതൊരു കലയാണ്എന്താണ് അവർ നിരീക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ ശരിക്കും അറിയണം നിങ്ങൾ കാര്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കണം തുടർന്ന് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം അവസാനം അവരുടെ അഭിപ്രായം അറിയണം എങ്കിലേ ഈ പ്രക്രിയ പൂർത്തിയാകൂ അതിനാൽ എന്നാൽ ചിട്ടയായ രീതിയിലോ പ്രക്രിയയിലൂടെയോ നിങ്ങൾ ഇതിൻറെ ഭാഗമായി മുമ്പ് എന്തെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിതിൻ കുര്യൻ സിഒഒ നോയിൻ ഇലക്ട്രോണിക്സ് വിദ്യാർഥികൾ എന്ന ടാർജറ്റ് മാർക്കറ്റിന് ഇതുപോലൊന്ന് എങ്ങനെ പ്രാവർത്തികമാക്കും എന്നതിനെക്കുറിച്ചുള്ള ഗവേഷണത്തിന് അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചില ഫോക്കസ് ഗ്രൂപ്പ് ഗവേഷണങ്ങളും അഭിമുഖങ്ങളും നടത്തിയിട്ടുണ്ട് അതിൽ ഇതിൽ ഭൂരിഭാഗവും സ്കൂൾ പഠനം കഴിഞ്ഞവരും തുടർന്നുകൊണ്ടിരിക്കുന്നവരും ആണ് അവരിൽ നിന്നും ലഭിച്ച ഫീഡ്ബാക്ക് വിദ്യാർത്ഥികൾക്ക് അവരുടെ കുറിപ്പുകൾ എല്ലാം ഒരിടത്തേക്ക് കൊണ്ടുവരാൻ തീർച്ചയായും താല്പര്യപ്പെടുന്നു ധാരാളം വിദ്യാർത്ഥികൾ ഒരൊറ്റ പുസ്തകം ഉപയോഗിക്കുന്നു എന്നതാണു കണ്ടെത്തിയത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ വിഷയങ്ങളും അതിൽ തന്നെ എഴുതി ബുക്ക്മാർക്കുകൾ ഉപയോഗിച്ചു അവർ അതിനെ ഓർഗനൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു മാത്രമല്ല എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ എല്ലാ പാഠപുസ്തകങ്ങളും ദിനംപ്രതി സ്കൂളിൽ കൊണ്ടുവരേണ്ടത് നിർബന്ധമാണ് അത് തീർച്ചയായും ഒരു ബുദ്ധിമുട്ടാണ് ഇത്തരം ഭാരമുള്ളവ തീർച്ചയായും വിദ്യാർഥികൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതും മടുപ്പിക്കുന്നതുമായ പ്രവർത്തനമാണ് സിദ്ധാർത്ഥ് മാധുരി സിഇഒ നോയിൻ ഇലക്ട്രോണിക്സ് ഈ ആശയം ആരംഭിച്ച ഘട്ടത്തിൽ സുപ്ര ആണ് ഇത്തരമൊരു ആശയം കൊണ്ടുവന്നത് ഒരു ഉത്പന്നം നിർമിക്കാൻ വരെയുള്ള ലെവൽ എത്തിയത് അതിൽനിന്നാണ് അതിലൂടെ ഒരു സേവനവും ഒരു സിസ്റ്റവും ഓർഗനൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇതുവരേക്കും മൂന്നു മുതൽ നാലു തവണ വരെ മാർക്കറ്റ് വിശകലനം നടത്തി മാറ്റങ്ങൾ വരുത്തി പ്രീ പ്രൈമറി സ്കൂൾ സ്ലേറ്റ് പോലെ എഴുതാനും മായ്ക്കാനും കഴിയുന്ന ഒരു റൈറ്റിങ് ഉപകരണത്തിൽ നിന്നാണ് ആശയം ആരംഭിച്ചത് പിന്നീട് ബ്ലൂടൂത്ത് വഴി ഈ സൈറ്റിൽ എഴുതുന്നത് മറ്റൊരു ഉപകരണത്തിലേക്ക് കണക്ട് ചെയ്യാനും ആ കുറിപ്പുകൾ കൾ റെക്കോർഡ് ചെയ്യാനും കഴിയുന്ന ഒരു പ്രോട്ടോടൈപ്പ് ഉപകരണത്തെ പ്രോട്ടോടൈപ്പ് ശ്രമിച്ചു അതിൻറെ ഫലമായി എഴുതാനും കുറിപ്പുകൾ യഥാർഥത്തിൽ വീണ്ടെടുക്കാനും ഓർഗനൈസ് ചെയ്യാനും ക്ലൌഡ് ലേക്ക് നേരിട്ട് സമന്വയിപ്പിക്കാൻ ഉം കഴിയുന്ന ഒന്നിലേക്ക് എത്തി തുടർന്ന് മാർക്കറ്റുമായി ധാരാളം സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് രക്ഷകർത്താക്കളും ആയി വിദ്യാർഥികളുമായി അധ്യാപകരുമായി സ്കൂൾ അഡ്മിൻ സ്റ്റാഫുകളും ആയി നടത്തിയ സംഭാഷണത്തിൽ നിന്നും ഒരുപാട് തിരിച്ചറിവുകൾ ലഭിച്ചു എല്ലാം കണക്കിലെടുത്താണ് എഴുതാനും ഓർഗനൈസ് ചെയ്യാനും സംരക്ഷിക്കാനും കഴിയുന്ന ഈ ഉപകരണത്തിലേക്ക് എത്തിയത് പ്രൊഫസർ ഒരു പൊതുവായ ചോദ്യം നിങ്ങൾ പറഞ്ഞതുപോലെ ഇത്തരമൊരു ആശയം രൂപീകരിക്കുന്നതിൽ നിങ്ങൾ മൂന്നു വർഷമായി പരിശ്രമിക്കുകയാണ് ഇതൊരു ക്ലാസിക് ഡിസൈൻ തിങ്കിംഗ് പ്രക്രിയയാണ് അതായത് മാർക്കറ്റ് വിലയിരുത്തുന്നു അവർക്ക് വേണ്ടത് എന്താണെന്ന് കണ്ടെത്തുന്നു തുടർന്ന് അവ നിർമിക്കുന്നു എന്നിട്ട് അവരുടെ അഭിപ്രായം അറിയുന്നു ഇതാണ് ഒരു പ്രൊഫഷണൽ വഴി അതിനാൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം ആരെങ്കിലും ഇത്തരമൊരു പാതയിൽ വരുകയാണെങ്കിൽ നിങ്ങളുടെ പരിശ്രമത്തിന് കാഴ്ചപ്പാടിൽ എന്തു ചെയ്യണം ഏതു പാതയിലൂടെ പോകരുത് ഏതു പാത സ്വീകരിക്കുക അതിലെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് എനിക്കറിയാം എന്നിങ്ങനെ ഉപദേശിക്കാൻ കഴിയുമോ സിദ്ധാർത്ഥ് മാധുരി സിഇഒ നോയിൻ ഇലക്ട്രോണിക്സ് ആദ്യമായി ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് നേരിട്ട് അറിയുക അവരോട് സംസാരിക്കുക അവരുടെ സ്ഥാനത്തുനിന്ന് മനസ്സിലാക്കുക അവരുടെ ജീവിത രീതി എങ്ങനെയാണെന്ന് പഠിക്കുക അവരുടെ ദൈനംദിന പ്രക്രിയകൾ മനസ്സിലാക്കി ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക എന്നിട്ട് ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കാൻ പുറപ്പെടുക ശരിയായ പ്രശ്നം തിരിച്ചറിയുന്നത് മുഴുവൻ പ്രക്രിയയുടെയും താക്കോൽ ആണ് നിതിൻ കുര്യൻ സിഒഒനോയിൻ ഇലക്ട്രോണിക്സ് തുടക്കത്തിൽതന്നെ പുറത്തുനിന്നു കാണുന്ന പ്രശ്നം ആയിരിക്കില്ല ശരിക്കും നിങ്ങൾക്ക് ഒരു ഉൽപ്പന്നമോ ആശയമോ മനസ്സിൽ ഉണ്ടായിരിക്കാം മാത്രമല്ല നിങ്ങൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾ ഉപഭോക്താവും ആയി ദീർഘനേരം സംവദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ പ്രശ്നം നിലനിൽക്കുന്നതെന്നു ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും പ്രൊഫസർ ഇതിന് ഒരു ഉദാഹരണം പറയാമോ നിതിൻ കുര്യൻ സിഒഒനോയിൻ ഇലക്ട്രോണിക്സ് ശരി നമ്മുടെ അവസ്ഥയിൽ സംഭവിച്ചത് വിദ്യാർഥികൾക്ക് അവരുടെ കുറിപ്പുകൾ ഡിജിറ്റലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ കരുതി എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ പുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ മനസ്സിലായത് വിദ്യാർഥികൾക്ക് അവരുടെ എല്ലാ കുറിപ്പുകളും ഒരിടത്ത് ഓർഗനൈസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്ന് വ്യത്യസ്തമായി നിൽക്കാതെ എന്തുകൊണ്ടാണ് അവർ ഇത് എല്ലാം ഒരുമിച്ച് ഓർഗനൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നായി അടുത്ത ചോദ്യം അവർക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും അദ്ധ്യാപകർക്ക് അവരുടെ കുറിപ്പുകൾ എവിടെയാണെന്ന് എളുപ്പത്തിൽ കണ്ടെത്താനാകും ഇത് ഓർഗനൈസ് ചെയ്യുന്നത് വിദ്യാർഥികൾക്ക് എളുപ്പമാകും ഇതുവഴി കൂടുതൽ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് പേപ്പറിൽ എഴുതുന്നത് ഒഴിവാക്കി നമ്മുടെ ഉൽപ്പന്നത്തിൽലേക്ക് മാറാൻ അവർ താൽപര്യപ്പെടുന്നത് എന്ന് പ്രൊഫസർ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങൾക്ക് നല്ലൊരു എഴുതാനുള്ള ഒരു കഴിവ് ഉണ്ടായാൽ മാത്രം പോരാ എഴുതാനുള്ള കഴിവ് തന്നെയാണ് ഇതിനെല്ലാം തുടക്കംശരിയാണ് ഒരു വിദ്യാർത്ഥി ദിവസേന നേരിടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് നിങ്ങളുടെ ഉൽപ്പന്നത്തിൻറെ രൂപകല്പനയിൽ കണക്ക് എടുത്തിട്ടുണ്ടോ അത് സുപ്രയെ ഏൽപ്പിക്കുകയാണെങ്കിൽ വളരെ മികച്ചതായിരിക്കും എനിക്കതിൽ വിശ്വാസമുണ്ട് എന്നാൽ നിങ്ങളുടെ ഉൾക്കാഴ്ചകൾ നൽകുന്ന നിരന്തരം വെല്ലുവിളിക്കപ്പെടുന്നു ശരിയാണ് എഴുത്തിനെ കഴിവ് മാത്രം മതിയാകില്ല അതിലും വേണ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് തുടരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് അതിനുള്ള ഒരു മാർഗം ശരി നിങ്ങൾ ചെയ്ത് മറ്റേതെങ്കിലും അമ്പരപ്പിക്കുന്ന തെറ്റുകൾ ഇതെല്ലാം കണ്ട് മിണ്ടാതിരിക്കുന്നവരുണ്ടോ ദൈവത്തിനു നന്ദി ആ പാതയിലേക്ക് ഞാൻ പോകുന്നില്ല സിദ്ധാർത്ഥ് മാധുരി സിഇഒ നോയിൻ ഇലക്ട്രോണിക്സ് പ്രശ്നങ്ങളെ തുടക്കത്തിൽത്തന്നെ വിലയിരുത്തുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സർ പ്രാരംഭഘട്ടത്തിൽ മറ്റെല്ലാ സ്റ്റാർട്ടപ്പുകൾഎയും പോലെ ഞങ്ങളും അല്പം വരുമാനമുണ്ടാക്കാൻ ശ്രമിച്ചു തുടക്കത്തിൽ പണം സമ്പാദിച്ചാൽ നിക്ഷേപകരെയും മാർക്കറ്റിനെയും ആകർഷിക്കാൻ കഴിയും പ്രീപ്രൈമറി വിദ്യാർഥികൾക്ക് എഴുതാനും വായിക്കാനും കഴിയുന്ന ഒരു ഉൽപന്നം കൊണ്ടുവരിക എന്നതായിരുന്നു ആദ്യ ലക്ഷ്യം പിന്നീട് ഞങ്ങൾ മനസ്സിലാക്കിഎഴുത്തുകൊണ്ടുമാത്രം അവരുടെ പഠനം മികച്ചത് ആവില്ല വീണ്ടും ഞങ്ങൾ കാര്യങ്ങളെ വിലയിരുത്തി മനസ്സിലാക്കിയേ എഴുത്തും വായനയും മാത്രം പോരാ ഒരു മികച്ച പഠനത്തിന് എന്ന് നിതിൻ കുര്യൻ സിഒയു നോയിൻ ഇലക്ട്രോണിക്സ് അവർക്ക് കടലാസിൽ എഴുതുന്ന അനുഭവം ലഭിക്കുന്നു അതിനാൽ ഇത് വീണ്ടും നിങ്ങളുടെ പ്രസ്താവനയിലേക്ക് വരുന്നു എഴുതാനുള്ള കഴിവ് മാത്രം വർദ്ധിച്ചു കൊണ്ട് കാര്യമില്ല ഈ ഉൽപ്പന്നത്തിന് യാത്രയിൽ ഇനിയും പഠിക്കേണ്ടതുണ്ട് പ്രൊഫസർ ശരി നിതിൻ കുര്യൻ സിഒയു നോയിൻ ഇലക്ട്രോണിക്സ് ഭാവിയിൽ പഠനത്തിന് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു ഉൽപ്പന്നം ആയിരിക്കും അതിനനുസരിച്ച് ഉൽപ്പന്നം വികസിക്കുകയും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യും പ്രൊഫസർ ഇത് തികച്ചും രസകരമാണ് നിങ്ങളുടെ വാക്കിന് ഞാൻ മുറുകെ പിടിക്കുന്നു ഈ ഉൽപ്പന്നത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പെട്ടെന്നൊരു നിമിഷം ഉൽഭവിച്ചത് അല്ല ഇത് കണ്ടെത്തിയപ്പോൾ തന്നെ വിപണിയിൽ എത്തിക്കാൻ തീരുമാനിച്ചു കാണും പലപ്പോഴും കണ്ടു പിടുത്തക്കാർ പ്രശ്ന പരിഹാരികളായി മാറുന്നു നമ്മുടെ ആദ്യമൊരു ആശയത്തിൽ മുഴുകി ഇത് തന്നെയാണ് ശരി എന്ന് വിചാരിക്കുന്നു ഇത് മാർക്കറ്റിൽ ആകെ മാറ്റാൻ കഴിവുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നു ഇത് വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് വിചാരിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കണമെന്നില്ല പിന്നീട് നിങ്ങൾ പുതിയൊരു ആശയം രൂപപ്പെടുന്നു അത് നിങ്ങടെ അംഗങ്ങളുമായി ചർച്ച ചെയ്യുന്നു അതിനനുസരിച്ച മാറ്റങ്ങൾ വരുത്തുന്നു അതുവഴി മികച്ചതും മികവുറ്റ തുമായ ഉൽപന്നത്തിലേക്ക് മാറുന്നു അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്നാലും മാർക്കറ്റ് ചെയ്യേണ്ടിവരും അതിനാൽ നിങ്ങൾ മുന്നേ കടന്നു പോയ വഴികളെപ്പറ്റി ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ ചിന്തകളുടേയും പ്രവർത്തനങ്ങളുടേയും മാർക്കറ്റിനെ വിശകലനംചെയ്ത് പറ്റി ഞങ്ങൾക്ക് ഒരു ധാരണ കിട്ടി അതിനാൽ എൻറെ ചോദ്യം ഡിസൈൻ തിങ്കിംഗ് അതിൻറെ ഭാഗമായി ഈവക പ്രക്രിയകളെല്ലാം ചെയ്യണം എന്ന് പറയാൻ സാധിക്കുമോ അതിൻറെ നാല് ഘട്ടങ്ങൾ പ്രശ്നം കണ്ടെത്തുക വിശകലനം ചെയ്യുക പരിഹരിക്കുക വീണ്ടും പരീക്ഷിക്കുക ഇവയെല്ലാമാണ് ഞങ്ങൾ അഞ്ചുപേരുടെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് അതിനാൽ നിങ്ങളോട് ഉള്ള ചോദ്യം പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇനി മുന്നോട്ടുപോകും വിപണിയിലേക്ക് അതിൽ നിന്ന് നമ്മളെ തടയുന്നത് എന്താണ് നമ്മുടെ ഈ കോഴ്സിൽ നിങ്ങൾഅഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രാഥമിക വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഇതുവഴി നമ്മൾ എന്തൊക്കെയാണ് ഡിസൈൻ തിങ്കിംഗ് വഴി ചെയ്യാൻ പോകുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കും നിതിൻ കുര്യൻ സിഒഒനോയിൻ ഇലക്ട്രോണിക്സ് സാഹചര്യങ്ങളിൽ ഡിസൈനിംഗ് നമ്മളെ സഹായിക്കും പ്രൊഫസർ ആ പറഞ്ഞത് ശരിയാണ് ഇതു കൂടാതെ മറ്റേതെങ്കിലും മേഖലയിൽ ഉപയോഗിക്കാൻ സാധിക്കുമോ സിദ്ധാർത്ഥ് മാധുരിസിഇഒ നോയിൻ ഇലക്ട്രോണിക്സ് അതെ സാർ ഈ ഉൽപ്പന്നത്തിൻറെ പരിണാമ ഘട്ടത്തിൽ ഞങ്ങൾ ഒരു മോഡൽ ഉണ്ടാക്കി എന്നാൽ അത് മാർക്കറ്റ് തള്ളിക്കളഞ്ഞു പിന്നീട് മാർക്കറ്റിന് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് കൊണ്ടുവന്ന മാർക്കറ്റിൽ ടെസ്റ്റ് ചെയ്യണം ഡിസൈൻ തിങ്കിംഗ് എന്ന ആശയവും ഉൽപ്പന്നത്തിൻറെ നിർമ്മാണ കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അതിനാൽ ഞങ്ങൾ മാർക്കറ്റിലേക്ക് വീണ്ടും ചെല്ലുകയാണ് ആ മാർക്കറ്റ് മനസ്സിലാക്കി ഒരു പുതിയ ഡിസൈൻ ഉള്ള ഉൽപ്പന്നം കണ്ടെത്തി അവരുടെ ആവശ്യത്തെ ശമിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം

ഇപ്പോൾ അവർ പറയുകയാണ് ഈ ഉത്പന്നം ഒരുവിധം കൊള്ളാം എന്നുപറഞ്ഞാൽ വീണ്ടും ഡിസൈൻ തിങ്കിങ് വഴി പഠനം നടത്തി പ്രശ്നത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി നല്ലൊരു ആശയം കൊണ്ടുവരും വീണ്ടും ഇതേ പ്രക്രിയ തുടരും ഇതുവഴി നല്ലൊരു ഉൽപന്നത്തിലേക്ക് എത്തിച്ചേരാനാകും പ്രൊഫസർ ഇനി അടുത്തതായി എന്താണ് എനിക്കറിയാം മാർക്കറ്റ് പൾസർ എന്താണ് അവർക്ക് എന്താ വേണ്ടത് എന്താണ് വേണ്ടാത്തത് അതിനാൽ ഡിസൈൻ തിങ്കിംഗ് ഇതിനെല്ലാം ഒരു വെളിച്ചം പകരും എങ്കിൽ നിങ്ങളുടെ അടുത്ത നീക്കം എന്താണ് നിതിൻ പറഞ്ഞതുപോലെ നിങ്ങടെ കയ്യിൽ ഇതിൻറെ ഒരു പ്രോട്ടോടൈപ്പ് മാത്രമേയുള്ളൂ അതു മൊത്തത്തിൽ പ്രാവർത്തികമാക്കിയിട്ടില്ല ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ എങ്ങനെ ഇതിനെപ്പറ്റി ആൾക്കാരെ ബോധ്യപ്പെടുത്തും നിധിൻ കുര്യൻ സിഒഒനോയിൻ ഇലക്ട്രോണിക്സ് ഒരു സംരംഭകനായ ഞാൻ ഈ ഉൽപ്പന്നത്തിൻറെ എൻറെ മനസ്സിൽ ഉള്ള ആശയം അവരെബോധ്യപ്പെടുത്തും ഞാൻ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് അവർക്ക് തോന്നൽ പാടില്ല ഇതിനായി ഡിസൈൻ തിങ്കിങ് ആശയങ്ങൾ വഴി അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും പ്രൊഫസർ വളരെ രസകരം ശരി ഇനി എന്തെങ്കിലും നിങ്ങൾ നാലുപേർക്ക് പറയാനുണ്ടോ എന്തെങ്കിലുമുണ്ടോ ഇതിന് ശാസ്ത്രീയവശം വല്ലതും പറയാനുണ്ടോ ഞാൻ അടുത്തിടെ കേൾക്കുകയുണ്ടായി ഞാൻ മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കാൻ വിദഗ്ധൻ ആണെന്ന് ക്ലാസിലും ഞാൻ അങ്ങനെയാണോ സ്ഥലവും ഭാരവും ആണ് ഇതിലെ മുഖ്യ ഘടകം അല്ലേ ഇവ പരിഹരിക്കുകയാണ്ല്ലോ നിങ്ങടെ ഉൽപ്പന്നത്തിന് മുഖ്യലക്ഷ്യം ശരിയാണ് അവരുടെ പുസ്തക സഞ്ചിയുടെ ഭാരം ഒരു പ്രശ്നം തന്നെയാണ് മാത്രമല്ല സംസ്ഥാനസർക്കാരുകളും ഈ ഭാരം കുറയ്ക്കാനുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു അത് വളരെ ശ്രദ്ധിക്കേണ്ട പ്രശ്നം തന്നെയാണ് നമ്മുടെ കണ്ടുപിടിത്തം അതിനൊരു പരിഹാരം ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സുപ്ര ഇതിൻറെ ടെക്നിക്കൽ വശം വല്ലതും പറയാനുണ്ടോ സുപ്രതിവ് ദാസ് സിടിഒ നോയിൻ ഇലക്ട്രോണിക്സ് സാർ ഇതിൻറെ ടെക്നിക്കൽ വശം പറയുകയാണെങ്കിൽ ഉപഭോക്താവിന് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ഉൽപ്പന്നമായി തീർന്നാൽ മാത്രമേ അവരുടെ അഭിപ്രായങ്ങൾ അറിയാൻ സാധിക്കൂ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ഡിസൈൻ തിങ്കിങ് ഇൻറെ സഹായത്താൽ സാധിക്കും ഇപ്പോൾ നമ്മൾ അതിൻറെ സാധാരണ ഉപയോഗങ്ങൾ ആയ എഴുതാനും സ്ഥലം ഭാരം എന്നിവ കുറയ്ക്കാനും ഉപകരിക്കുന്ന ഒരു വസ്തുവായി മാത്രമാണ് കണ്ടിട്ടുള്ളൂ ഇതിൻറെ എല്ലാ പ്രവർത്തനങ്ങളും കൊണ്ടുവരാൻ സാധിച്ചാൽ തീർച്ചയായും അവർ ഇത് ഇഷ്ടപ്പെടും പിന്നീടുള്ള ഘട്ടങ്ങളിൽ മാറ്റങ്ങൾ വീണ്ടും വരുത്തേണ്ടി വരും എന്നാലും ഡിസൈൻ തിങ്കിങ് വഴി അത് പരിഹരിക്കാനാകും നിധിൻ കുര്യൻ സിഒഒനോയിൻ ഇലക്ട്രോണിക്സ് ഈ ഉൽപ്പന്നത്തിന് ടെക്നിക്കൽ വിഭാഗത്തിലും ഡിസൈൻ തിങ്കിങ് ഉപയോഗിച്ചിട്ടുണ്ട് സുപ്രതിവ് ദാസ് സിടിഒ നോയിൻ ഇലക്ട്രോണിക്സ് അതിനാൽ ഇ 4 കാര്യങ്ങളെയും പറ്റി വിലയിരുത്തുന്നുണ്ട് വികാരപരമായ വീക്ഷണംവിലയിരുത്തൽ പരിഹാരം കണ്ടെത്തൽ പുനർപരിശോധന ഈ രീതിയിലൂടെ ആണ് കടന്നു പോകുന്നത് ശരി ഉപയോഗിച്ച രീതിയിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന് നന്ദി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ സിദ്ധാർത്ഥ് മാധുരിസിഇഒ നോയിൻ ഇലക്ട്രോണിക്സ് മറ്റൊരു കാര്യം സാർ ഈ ഉൽപ്പന്നത്തിൻറെ മറ്റു ഗുണങ്ങളെപ്പറ്റി ഈ ഉൽപ്പന്നം എഴുത്തുമായി ബന്ധപ്പെട്ട് ഏതു മേഖലയിലും ഉപയോഗിക്കാൻ അതിപ്പോൾ ഒരു ജോലി സ്ഥലത്തായാലും നിത്യേന എഴുത്തു നടക്കുന്ന ഒരു സ്ഥലമാണ് ഒരു വിതരണക്കാരൻ ആയാലും സ്കൂൾ മാനേജ്മെൻറ് മുതൽ പ്യൂൺ വരെ നിത്യേന എഴുതുന്നവരാണ് ഒരു കൂട്ടം ആളുകൾക്ക് ചില ജോലികൾ ചെയ്യാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട് വിചാരിക്കുക ചെയ്തശേഷം മേലുദ്യോഗസ്ഥന് ആ വിവരം കൈമാറുകയും ഈ വിവരം ഉടമസ്ഥനെ അറിയിക്കുകയും ചെയ്യണം അതിനാൽ ഇത്തരം പ്രവർത്തികൾ എല്ലാം തന്നെ ഒരു ഉപകരണത്തിൽ ചെയ്യാവുന്നതാണ് അതിനാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എഴുതാനും എളുപ്പത്തിൽ ഇതിനെ ചിട്ടപ്പെടുത്താനും മാത്രമായിട്ടുള്ള ഒരു ഉപകരണമല്ല എഴുത്തുമായി ബന്ധപ്പെട്ട് നിത്യേന ഉള്ള മറ്റു പ്രക്രിയകളും ഏകോപിപ്പിക്കുക എന്നതാണ് ഈ ഉൽപ്പന്നം ഒരു വ്യക്തിയ്ക്ക് വിറ്റു കഴിഞ്ഞാൽ അത് എങ്ങനെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു അവർ എങ്ങനെ എല്ലാം അതു ഉപയോഗിക്കുന്നു എന്നീ വിവരങ്ങളെല്ലാം അറിയാൻ പറ്റാവുന്ന രീതിയിൽ ഒരു സംവിധാനം കൂടി കൊണ്ടുവരാൻ ഡിസൈൻ തിങ്കിങ് വഴി സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രൊഫസർ ശരി നാല് പ്രശ്നങ്ങളെയാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത് സ്കൂൾ വിദ്യാർഥികളാണ് നമ്മുടെ ടാർഗെറ്റ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് നിങ്ങൾ ഹൈസ്കൂൾ കാറ്റഗറിയിൽ പെടുന്നവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യമായി ഒരു മുഴുവനായി രൂപീകരിച്ച ഉൽപന്നമാണ് വേണ്ടത് അത് ഉപയോഗിക്കുന്ന ആൾക്ക് താല്പര്യം ഉണ്ടാവണമെങ്കിൽ അത് നിർബന്ധമാണ് എന്നാ നമ്മുടെ കയ്യിൽ അതില്ല പകരം പ്രോട്ടോടൈപ്പ് ആണ് രണ്ടാമതായി നിങ്ങൾക്കറിയാം ഈ ടെക്നോളജിക്കൽ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഇത്തരം ഉപകരണങ്ങൾ ആവശ്യക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതും വലുതും ഇറങ്ങുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ 3D പോലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഉപകരണം ഇന്നത്തെ ടെക്നോളജിക്ക് ചേർന്നതാണ് എന്ന് അത്തരം ഒരു ഉൽപ്പന്നം ആണെങ്കിൽ മാത്രമേ ആളുകൾക്ക് ഇഷ്ടപ്പെടുള്ളൂ എന്ന് അവസാനമായി ഈ എഴുത്തിനുള്ള ഉപകരണം എവിടെയെല്ലാം ഉപയോഗിക്കാം നിങ്ങൾ പറഞ്ഞു ഈ ഉപകരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉപകരിക്കും അതിപ്പോൾ സ്കൂൾ ഉദ്യോഗസ്ഥർക്ക് ആയാലും എയർക്രാഫ്റ്റ് മേഖലയിലായാലും ഇത് ഉപയോഗിക്കുമ്പോഴുള്ള noun വെർബ് എന്നീ ഗ്രാമർ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കും ഡിസൈൻ തിങ്കിംഗ് വഴി നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം സാധൂകരിക്കാൻ സാധിക്കും അതിന് ഞാൻ നിങ്ങളുടെ ഗൈഡ് അല്ലെങ്കിൽ അധ്യാപകൻ ഉപദേശിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഈ ഉത്പന്നത്തെ മെച്ചപ്പെടുത്തുവാൻ ഞാൻ കൂടെയുണ്ടാകും മാത്രമല്ല ഉൽപ്പന്നം എങ്ങനെ കാര്യക്ഷമമായി ഉപയോഗിക്കാം എന്ന് ആളുകളെ പഠിപ്പിക്കാനും അതുവഴി നമുക്ക് പഠിക്കാനും സാധിക്കും നന്ദി വളരെ നന്ദി ശ്യാം പോൾ എം ഹെഡ് മാർക്കറ്റിംഗ് നോയിൻ ഇലക്ട്രോണിക്സ് ഒരു പ്രശ്നം കൂടി ചൂണ്ടി കാണിക്കട്ടെ പ്രൊഫസർ തീർച്ചയായും ശ്യാം പോൾ എം ഹെഡ് മാർക്കറ്റിംഗ് നോയിൻ ഇലക്ട്രോണിക്സ് ശരി സാർ ഇപ്പോൾ സ്കൂളുകളിൽ ഓൺലൈൻ പഠനം ആരംഭിക്കുകയാണ് ഓൺലൈൻ വഴി വിദ്യാർഥികൾക്ക് ക്ലാസ് എടുക്കുകയാണ് എന്നാൽ പല വിദ്യാലയങ്ങളിലും അത് ചെയ്യുന്നില്ല ഈ ഡിസൈൻ തിങ്കിങ് വഴി എന്തുകൊണ്ടാണ് ചില വിദ്യാലയങ്ങളിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ നടപ്പിലാക്കാത്തത് അവർ ടാബ്ലെറ്റ്സ് ലാപ്ടോപ് എന്നിവ സ്കൂളുകളിൽ അനുവദിക്കാത്തത് എന്നെല്ലാം ഡിസൈൻ തിങ്കിങ് വഴി കണ്ടെത്തേണ്ടതുണ്ട് പ്രൊഫസർ മനോഹരം ഇതിൻറെ കൂടെ ഞാനും ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് വിദ്യാലയങ്ങളിൽ ഡിജിറ്റൽ ആകുന്നതിൽ തടയുന്നത് പല വിദ്യാലയങ്ങളും സ്മാർട്ട് ക്ലാസുകൾ ആയി മാറിയിരിക്കുന്നു അതിൻറെ ഭാഗമായി ഈ പോർട്ടലുകൾ വന്നിരിക്കുന്നു ഡിജിറ്റൽ മാർഗ്ഗത്തിലൂടെ കാശ് അടയ്ക്കാനുള്ള ഉള്ള രീതിയും വന്നിരിക്കുന്നു എന്നുവെച്ചാൽ ചില മേഖലയിൽ നമ്മൾ വളരെ മെച്ചപ്പെട്ട ഇരിക്കുകയാണ് എന്നാൽ ചില മേഖലയിൽ ഇപ്പോഴും ശിലായുഗം ആണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്തായാലും മികച്ച ഒരു ചോദ്യം ഡിസൈൻ തിങ്കിങ് ആയി ബന്ധപ്പെട്ട ഒരു നല്ലൊരു ചോദ്യമായിരുന്നു നന്ദി നമുക്ക് കാണാം ഇത് എങ്ങനെ മുന്നോട്ടു പോകുന്നു എന്ന് വളരെയധികം നന്ദി